സോളിഡ് വർക്ക്സ് തുടരുന്നു എല്ലാവര്ക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം മുമ്പത്തെ ക്ലാസുകളിൽ സോളിഡ് വർക്കുകളെക്കുറിച്ച് നാം പഠിച്ചു ഇപ്പോൾ സോളിഡ് വർക്കുകളുമായി ബന്ധപ്പെട്ട വിവിധ ഓപ്ഷനുകൾ നാം ഉപയോഗിക്കാൻ പോകുന്നു അവസാന ക്ലാസ്സിൽ സോളിഡ് വർക്ക്സ് ഐക്കണിൽ ഇരട്ട ക്ലിക്കുചെയ്തതിനുശേഷം ഇത്തരത്തിലുള്ള സ്ക്രീനിൽ അവസാനിക്കുമെന്ന് മനസ്സിലാക്കി അതിൽ നാം മുമ്പത്തേതുപോലെയുള്ള ഒന്ന് നിർമ്മിച്ചു ഞാൻ തുറക്കാൻ താൽപ്പര്യപ്പെടുന്നെങ്കിൽ ഈ ഓപ്പൺ ഓപ്ഷൻ ഉപയോഗിക്കാൻ കഴിയും ആ ഭാഗത്തിൽ ക്ലിക്കുചെയ്ത് തുറക്കുക ഒരു പുതിയ ഡ്രോയിംഗ് നിർമ്മിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പുതിയ ഓപ്ഷനിലേക്ക് പോകുക ഇടത് ബട്ടൺ ക്ലിക്കുചെയ്യുക അതിനുശേഷം ഓകെ ബട്ടൺ അമർത്തുക തുടർന്ന് ഒരു ശൂന്യമായ സ്ക്രീൻ തുറക്കുന്നു ആ ശൂന്യമായ സ്ക്രീനിൽ ടാസ്ക്ബാർ പോലുള്ള നിരവധി ഓപ്ഷനുകളും സവിശേഷത മാനേജർ പോലുള്ള കാര്യങ്ങളും നാം കാണുന്നു പുതിയതായി ആരംഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ഡ്രോയിംഗും ആരംഭിക്കാൻ ശുപാർശ ചെയ്യുന്ന പ്രതലം മുൻവശത്തെ പ്രതലമാണ് അതിനാൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എന്നിവ നിർമ്മിക്കുമ്പോൾ ഈ ഫ്രണ്ട് പ്രതലം ടോപ്പ് പ്രതലം സൈഡ് പ്രതലം എന്നിവ നമ്മളുടെ യഥാർത്ഥ ദ്വിമാന സ്കെച്ചുകളല്ല ആ കാഴ്ചകൾ വ്യത്യസ്തമാണ് ഇവിടെ പ്രതലങ്ങൾ വ്യത്യസ്തമാണ് ഡ്രോയിംഗുകൾ നിർമ്മിക്കാൻ വ്യക്തിയെ സഹായിക്കുന്നതിന് മാത്രമാണ് ഈ പ്രതലങ്ങൾ അതിനാണ് നാം ഇത്തരത്തിലുള്ള കീവേഡുകൾ ഉപയോഗിക്കുന്നത് ഇത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ എന്നിവ കൈകാര്യം ചെയ്യാൻ നാം ആരംഭിക്കുമ്പോൾ ഒരു റഫറൻസ് കോർഡിനേറ്റ് സിസ്റ്റം നൽകുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പ്രതല പ്രാതിനിധ്യം മാത്രമാണ് ആ ആവശ്യത്തിനായി മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രധാനമായും അല്ലെങ്കിൽ എല്ലാ സമയത്തും നമ്മൾ മുൻ പ്രതലം മാത്രം തിരഞ്ഞെടുത്ത് ഒരു വലത് ക്ലിക്ക് നൽകുക അത് ഒരു നോർമൽ ബട്ടൺ പോലെ തുറക്കുന്നു ആ പ്രതലത്തിനു ലംബമായി നമ്മൾ ക്ലിക്കുചെയ്യണം അപ്പോൾ ജോലിസ്ഥലം എപ്പോഴും വരുന്നു അതിൽ അവസാന ക്ലാസുകളിൽ നമുക്ക് ഒരു രേഖ വരയ്ക്കണമെങ്കിൽ ആ രീതിയിൽ വരയ്ക്കാൻ കഴിയുമെന്ന് നാം കണ്ടു തുടർന്ന് സ്മാർട്ട് അളവിലേക്ക് പോയി ഏകദേശം 20 യൂണിറ്റുകളായി ക്രമീകരിക്കുക യൂണിറ്റുകൾ എല്ലായ്പ്പോഴും 20 മില്ലിമീറ്ററാകാൻ ശ്രദ്ധിക്കുക തുടർന്ന് ഒകെ ക്ലിക്കുചെയ്യുക ഈ രീതിയിലായാണ് നമ്മൾ രേഖാചിത്രങ്ങൾ വരച്ചത് കൂടാതെ നാം ദീർഘചതുരങ്ങൾ വരച്ചു ഇപ്പോൾഇതിൽ സ്ലോട്ടുകൾ പോലുള്ള പ്രത്യേക വസ്തുക്കൾ ഉണ്ട് നിങ്ങൾക്ക് ഒരു പ്ലംബർ ബ്ലോക്ക് പോലെ എന്തെങ്കിലും ഉണ്ട് ഒരുപക്ഷേ ഏതെങ്കിലും മെക്കാനിക്കൽ ഉപകരണം ഒരു പ്ലേറ്റ് പോലെ ദ്വാരങ്ങളും മറ്റ് കാര്യങ്ങളും സൂക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭാഗങ്ങളെ സ്ലോട്ടുകൾ എന്ന് വിളിക്കുന്നു ആ സ്ലോട്ടുകൾ നിർമ്മിക്കാൻ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നാം ചെയ്യേണ്ടത് നേരായ സ്ലോട്ട് തിരഞ്ഞെടുക്കുക ഒബ്ജക്റ്റ് ആകൃതി അവിടെ ഒരു നേരായ സ്ലോട്ടായി പരാമർശിക്കുന്നു നമ്മുക്ക് കോണുകൾപോലുള്ള ഭാഗത്തു യോജിപ്പിക്കുന്ന വരകൾ കാണാം അത് തിരഞ്ഞെടുക്കുക അതിനാൽ ആദ്യ വരി രണ്ടാമത്തെ വരി രണ്ടാമത്തെ പോയിന്റ് എന്നിവ തിരഞ്ഞെടുക്കുക അതിനാൽ ഇത് മധ്യഭാഗത്ത് നിർമിക്കുക ഇപ്പോൾ നിങ്ങളുടെ മൌസ് നീക്കുക അത് അത്തരം വസ്തുക്കളെ നിർമ്മിക്കുന്നു വീണ്ടും ആദ്യത്തെ നേരായ സ്ലോട്ട് ക്ലിക്കുചെയ്യുക ഒരു ബട്ടണും പിടിക്കരുത് നിങ്ങളുടെ മൌസ് സ്വതന്ത്രമായി നീക്കുക ആദ്യ പോയിന്റിൽ ക്ലിക്കുചെയ്യുക തുടർന്ന് രണ്ടാമത്തെ പോയിന്റിൽ ക്ലിക്കുചെയ്യുക നിങ്ങളുടെ കൈകൾ സ്വതന്ത്രമായി നീക്കുക ഇപ്പോൾ നിങ്ങളുടെ മൌസ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നീക്കുക അത് ഒരുതരം കനം വീതി കാണിക്കുന്നു തുടർന്ന് അതിൽ ക്ലിക്കുചെയ്യുക ഇത് ചെയ്തു അതിനാൽ നിങ്ങൾ എസ്കേപ്പ്ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് നിർമ്മിച്ചിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് അളവ് ഉപയോഗിയ്ക്കാം ഇത് 40 യൂണിറ്റാണ് ആകേണ്ടത് നിങ്ങൾ എംഎം ക്ലിക്ക് ചെയ്യുക തുടർന്ന് എസ്കേപ്പ്ബട്ടൺ അമർത്തുക ഇപ്പോൾ നമുക്ക് ദൂരം ക്രമീകരിക്കണമെങ്കിൽ സ്മാർട്ട് അളവിനെ തിരഞ്ഞെടുക്കുക തുടർന്ന് ഇത് കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം കാണിക്കുന്നു അതിനാൽ 10 യൂണിറ്റ് ദൂരമാണ് ആവശ്യമെങ്കിൽ തുടർന്ന് ശരി ക്ലിക്കുചെയ്യുക എന്നിട്ട് ഇരുവശത്തും സമമിതി വസ്തുവായത് മൂലം ഇരുവശങ്ങളും അതിനോട് പൊരുത്തപ്പെടുന്നു നിങ്ങൾ ഒരു നേരായ സ്ലോട്ട് നിർമ്മിക്കുന്ന രീതിയാണിത് ഇത് നിർമ്മിക്കുന്നതിന്റെ പ്രയോജനം എന്താണെന്ന് നമുക്കുകാണാം ഡ്രോയിംഗ് ലൈനുകൾ ഉപയോഗിച്ചും പിന്നീട് ആർക്കുകൾ വരയ്ക്കുന്നതിലൂടെയും വീണ്ടും ഒരു രേഖ വരച്ചുകൊണ്ടും ആർക്ക് ഉപയോഗിച്ച് അടയ്ക്കുന്നതിലൂടെയും നമുക്ക് സമാനമായ രീതിയിൽ ഉപയോഗിയ്ക്കാൻ കഴിയും അർദ്ധവൃത്തം നമുക്ക് ചെയ്യാൻ കഴിയും എന്നാൽ നേരായ സ്ലോട്ടായി നേരിട്ട് ഒരു വസ്തു ലഭ്യമാണ് അതിനാൽ നമ്മൾ അത് ഉപയോഗിക്കുന്നു തുടർന്ന് എസ്കേപ്പ്ബട്ടൺ അമർത്തുക അതിനാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും പരാമർശിച്ച അളവുകൾ 40 യൂണിറ്റുകൾ ആർക്ക് 10 യൂണിറ്റുകൾ എന്നിവ പോലെയാണ് അതേ നേരായ സ്ലോട്ടിൽ ഇപ്പോൾ നമ്മൾ സെന്റർ പോയിൻറ് സ്ട്രെയിറ്റ് സ്ലോട്ട് പോലെയാണ് പോകുന്നത് ഈ മൌസ് ഉപയോഗിക്കുന്നതിൽ ഒരു പിടുത്തം നേടുന്നതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സോളിഡ് വർക്കുകളിൽ ആവിശ്യമായ വിവിധ ഓപ്ഷനുകളും ലഭ്യമാണ് ഇപ്പോൾ സെന്റർ പോയിന്റുകൾ നേരായ സ്ലോട്ട് തിരഞ്ഞെടുക്കുക അതിൽ ക്ലിക്കുചെയ്യുക ആദ്യ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ പോലുള്ള വ്യത്യസ്ത തരം ഓപ്ഷനുകൾ ഇത് കാണിക്കുന്നു ആദ്യത്തേത് തിരഞ്ഞെടുക്കുക സെന്റർ പോയിന്റ് ഇപ്പോൾ ഞാൻ അത് ആ രീതിയിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങളുടെ മൌസ് നീക്കി പൂർത്തിയാക്കി അതിനാൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഞങ്ങൾ കർശനമായ ബോഡി ലിങ്കുകൾക്കായി ഉപയോഗിക്കുന്നു ഒരു പക്ഷേ നാല് ബാർ സംവിധാനം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കണം കീവേഡ് നാമത്തിൽ നേരായ സ്ലോട്ട് ലഭ്യമായ ഈ ലിങ്ക് ഒബ്ജക്റ്റുകൾ എല്ലായിപ്പോഴും സഹായകരമാണ് നാം ഇതിനകം പഠിച്ച അളവുകൾ സ്മാർട്ട് അളവുകൾ ഉപയോഗിച്ച് നമുക്ക് എല്ലായ്പ്പോഴും ക്രമീകരിക്കാൻ കഴിയും ഇപ്പോൾ ഒരു കമാനത്തിനൊപ്പം എന്തെങ്കിലും ലഭിക്കാൻ ആഗ്രഹിക്കുന്നു അത്തരം ലിങ്ക് മെക്കാനിക്കൽ ലിങ്ക് നിർമ്മിക്കാൻ നമ്മൾ മൂന്ന് പോയിന്റ് ആർക്ക് സ്ലോട്ട് ആദ്യ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാം പോയിന്റ് എന്നിവ തിരഞ്ഞെടുക്കുക ഞാൻ നീക്കുന്നു എസ്കേപ്പ് അമർത്തുന്നു അതിനാൽ ആർക്ക് സഹിതം നമുക്ക് നിർമ്മിക്കാനും കഴിയും നമുക്ക് ഇത് വീണ്ടും ചെയ്യാം ത്രീ പോയിന്റ് ആർക്ക് സ്ലോട്ട് തിരഞ്ഞെടുക്കുക നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് ഇവിടെ ഒരു ഐക്കണായി കാണിക്കുന്നു അതിൽ ക്ലിക്കുചെയ്യുക ആദ്യത്തെ പോയിന്റ് എവിടെയെങ്കിലും ക്ലിക്കുചെയ്യുക ഇടത് ക്ലിക്കുചെയ്യുക വലത് ക്ലിക്കുചെയ്യുക ഇടത് ക്ലിക്കു മാത്രം ചെയ്യുകരണ്ടാമത്തേത് മൂന്നാമത്തെ ക്ലിക്കിലൂടെ അത് നീക്കുക അതിനാൽ എല്ലാസമയത്തും ഇടത് ക്ലിക്കുചെയ്യുക ഇടത് ക്ലിക്കുചെയ്യുക ഇടത് ക്ലിക്കുചെയ്യുക ശരിയായി ക്രമീകരിക്കുക ഇത്തരത്തിലുള്ള ലിങ്കുകൾ സൃഷ്ടിക്കാം ഇപ്പോൾ നമ്മൾ മറ്റ് ഒരു സെന്റർ പോയിന്റ് ആർക്ക് സ്ലോട്ട് നോക്കും വീണ്ടും ആർക്ക് നാം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നാം കേന്ദ്രം ആദ്യം ഒന്ന് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്നിവ നിർദ്ദേശിക്കുക അതിനുശേഷം നീക്കുക എസ്കേപ്പ് അമർത്തുക അതിനാൽ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ആർക്ക് നിർമ്മിക്കാൻ സാധിച്ചു തുടർന്ന് വീതി നീക്കി അത് ക്ലിക്കുചെയ്യുന്നതിന് മൂന്നാമത്തെ അളവിലേക്ക് നീങ്ങുക വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന രീതി ഇതാണ് ഇപ്പോൾ നമ്മൾ ഒരു രേഖ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു വരിയിൽ ക്ലിക്കുചെയ്ത് ഇവിടെ നിന്ന് അവിടേക്ക് ബന്ധിപ്പിക്കുക ഇപ്പോൾ അത് മറ്റൊന്നിൽ ചേർക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ വീണ്ടും അതിൽ ക്ലിക്കുചെയ്യുന്നു ആ പോയിന്റിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഒരു ത്രികോണം പോലെ ഒരു വരി കൂടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടർന്ന് ഞാൻ അത് തിരഞ്ഞെടുത്ത് അതിൽ ക്ലിക്കുചെയ്യും പ്രാദേശിക സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം പലതവണ എസ്കേപ്പ് അമർത്തുക ആ സ്കെച്ചിൽ നിന്ന് പുറത്തുവരാൻ രണ്ടുതവണ എസ്കേപ്പ് അമർത്തിയാൽമതിയാകും നിങ്ങൾ ഇപ്പോഴും സ്കെച്ച് മോഡിലാണ് പക്ഷേ നിങ്ങൾ വരയ്ക്കുന്ന പ്രാദേശിക തലത്തിൽ നിന്ന് പുറത്തുവരും അതുവഴി നിങ്ങൾക്ക് സ്മാർട്ട് ഡൈമൻഷൻ അല്ലെങ്കിൽ ദീർഘചതുരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ ഈ ഡ്രോയിംഗ് സംരക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അതിനുശേഷം അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ ക്ലിക്കുചെയ്യാം ഡ്രോയിംഗ് സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുടർന്ന് സ്വാഭാവികമായും ഫയൽ സേവ് ചെയ്യണം ഇപ്പോൾ നാം ഇതിനകം പാർട്ട് 12 ഡി നിർമ്മിച്ചു ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഭാഗം 2 അടിവരയിടുന്ന 2 ഡി ഡ്രോയിംഗ് ആണ് പേരുകളുമായി പൊരുത്തപ്പെടുക എല്ലായ്പ്പോഴും ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിക്കാൻ ആണ് ശുപാർശ ചെയ്യുന്നത് ഈ വാക്കുകളിൽ ഇടം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് ഭാഗം 2 സ്പേസ് 2 ഡി ഞങ്ങൾ ശുപാർശ ചെയ്യുന്നില്ല കാരണം ഈ ഇടങ്ങൾ ഓർമ്മപ്പെടുത്തൽ അൽപ്പം ബുദ്ധിമുട്ടാണ് അതിനാൽ കുറച്ച് സ്ഥലം വ്യക്തമാക്കണമെങ്കിൽ അടിവര ബട്ടൺ ഉപയോഗിക്കുക അങ്ങനെ അത് ഭാഗം 2 2 ഡി എന്നിവയിൽ ചേരുന്നു ചെറിയ അക്ഷരങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളുമായും ഇത് ശുപാർശചെയ്യും ഭാഗം 2 അടിവര 2d ചെറിയ അക്ഷരത്തിലെ എല്ലാം ആരംഭിക്കുന്നത് നല്ലൊരു തിരഞ്ഞെടുപ്പാണ് അതിനാൽ സേവ്ചെയ്യുക ഇപ്പോൾ അത് അടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുക്ക് എല്ലായ്പ്പോഴും അത് അടയ്ക്കാൻ കഴിയും ഇപ്പോൾ ഞാൻ അത് വീണ്ടും തുറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തുറക്കുക പാർട്ട് 2 ഡി ഉണ്ട് അത് തുറക്കുക കാരണം അതിൽ നിന്ന് വരുന്ന സ്കെച്ച് മോഡിൽ വീണ്ടും ക്ലിക്കുചെയ്യുന്ന സമയം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടങ്കിൽ എല്ലാം സംരക്ഷിച്ചിട്ടുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങളുടെ മുഴുവൻ ഡ്രോയിംഗും നഷ്ടപ്പെട്ടു അതിനാൽ സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരാൻ എല്ലായ്പ്പോഴും ശുപാർശ ചെയ്യുന്നു തുടർന്ന് ഡ്രോയിംഗ് സേവ് ചെയ്യുക പിന്നീട് നിങ്ങൾക്ക് ഇത് വീണ്ടും തുറക്കാൻ കഴിയും സ്കെച്ച് മോഡിൽ നിങ്ങൾ അത് സേവ് ചെയ്തു അതിനുശേഷം സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരാതെ തന്നെ നിങ്ങൾ മാർക്കിലേക്ക് ക്ലിക്കുചെയ്യുകയാണെങ്കിൽ അത് സേവ്ചെയ്യുന്നു നിങ്ങൾ ഇതിനകം സേവ്ചെയ്തത്പോലെ ഇത് സമീപകാല പതിപ്പ് എടുക്കുന്നു FL ഇപ്പോൾ നിങ്ങൾ ഡ്രോയിംഗ് അടയ്ക്കാൻ ശ്രമിക്കുകയാണ് അതിനർത്ഥം ഒന്നും സേവ്ചെയ്യരുത് അതിനാൽ ഇത് എല്ലാം മായ്ക്കുന്നു അതിനാൽ പതിവ് കാര്യങ്ങളിൽ ഡ്രോയിംഗുകൾ സംരക്ഷിക്കുന്നതിൽ പോലും ശ്രദ്ധിക്കണം എല്ലായ്പ്പോഴും സ്കെച്ച് മോഡിൽ നിന്ന് പുറത്തുവരിക ഡ്രോയിംഗ് സേവ്ചെയ്യുക ഇപ്പോൾ ഒരു പുതിയ ഡ്രോയിംഗ് ഉപയോഗിച്ച് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു പുതിയ ഭാഗം ഉപയോഗിച്ച് ആരംഭിക്കുക ഇപ്പോൾ ഏതെങ്കിലും പുതിയ ഡ്രോയിംഗിനായി നാം ഫ്രണ്ട് പ്ലെയിനിലേക്കു പോകണം അതിലേക്ക് സാധാരണയായി ക്ലിക്കുചെയ്യുക ഇപ്പോൾ ലൈൻ ദീർഘചതുരങ്ങൾ നേരായ സ്ലോട്ടുകൾ എന്നിവയെക്കുറിച്ച് നാം പഠിച്ചു ഇപ്പോൾ ഈ 2 ഡി ഷീറ്റിൽ ഒരു സർക്കിൾ നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ബട്ടൺ സർക്കിളിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഏത് സർക്കിളും വരയ്ക്കാൻ ഐക്കൺ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട സെന്റർ പോയിന്റ് പോലെയുള്ള ഒന്ന് ദൂരം പോലെയുള്ള ഒന്ന് അതിനാൽ ആ ആവശ്യത്തിനായി നാം എന്താണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എന്റെ കൈകൾ മൌസിൽ സ്പർശിക്കുന്നില്ല പക്ഷേ ഞാൻ ഇതിനകം ആ സർക്കിൾ ഐക്കണിൽ ക്ലിക്കുചെയ്തു അതിനാൽ ഇപ്പോഴും അത് ആ മോണിറ്ററിൽ പരിപാലിക്കുന്നു ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ഒരു പോയിന്റിൽ ഇടത് ക്ലിക്കുചെയ്യുക അതിനാൽ കേന്ദ്രം തിരഞ്ഞെടുത്തു ഇപ്പോൾ നിങ്ങളുടെ സർക്കിൾ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നീക്കുക അതിനർത്ഥം നാം ദൂരം വ്യക്തമാക്കുന്നു അതിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ആ സർക്കിൾ പൂർത്തിയാക്കി നിങ്ങളുടെ മൌസ് നിങ്ങൾ നീക്കുകയാണെങ്കിൽ ഇപ്പോഴും സർക്കിൾ മോഡിലാണ് അതിനർത്ഥം ഞാൻ ഒരു സർക്കിൾ കൂടി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉദാഹരണത്തിന് ഈ പോയിന്റ് ഉപയോഗിച്ച് ഞാൻ ഒരെണ്ണം കൂടി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഇപ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയും ആ സർക്കിൾ മോഡിൽ നിന്ന് പുറത്തുവരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തുടർന്ന് എസ്കേപ്പ് ബട്ടൺ രണ്ടുതവണ അമർത്തുക ഒരിക്കൽ അമർത്തിയാൽ നിങ്ങൾ ആ സർക്കിൾ മോഡിൽ നിന്ന് പുറത്താണ് ഇപ്പോൾ ഈ നമ്പറുകൾ പുനഃക്രമീകരിക്കാൻ സ്മാർട്ട് അളവുകൾ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒരു സ്മാർട്ട്ഡിമെൻഷൻ തിരഞ്ഞെടുക്കുക ആ സർക്കിളിൽ ക്ലിക്കുചെയ്യുക തുടർന്ന് അത് ആ സർക്കിളിന്റെ വ്യാസം പോലെയുള്ള ഒന്ന് കാണിക്കുന്നു മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നിന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നാം വ്യാസം പോലുള്ള എന്തെങ്കിലും ഉപയോഗിക്കുമ്പോഴെല്ലാം ഫൈ എന്ന ചിഹ്നം ചിത്രത്തിലേക്ക് വരുന്നു സോഫ്റ്റ്വെയറിലെ അതേ ചിഹ്നത്തിന്റെ അതേ പദവും കാണുന്നു ഇപ്പോൾ ആന്തരികമായി വ്യാസം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ പഠിച്ച ഒരു കാര്യം നാം ഇത്തരത്തിലുള്ള അളവ് നൽകരുത് അവിടെ നിങ്ങളുടെ അമ്പടയാളം മറ്റ് സർക്കിളുകളിൽ സ്പർശിക്കാൻ പോകുന്നു അത് അനാവശ്യമായി ചിത്രത്തിൽ അവ്യക്തത സൃഷ്ടിക്കുന്നു അതിനാൽ ആ ആവശ്യത്തിനായി നിങ്ങൾ മൌസ് ശ്രദ്ധാപൂർവ്വം നീക്കണം അനുയോജ്യമായ വ്യാസം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് അതിൽ ക്ലിക്കുചെയ്യാം ഇപ്പോൾ 75 മില്ലിമീറ്റർ പോലുള്ള എന്തെങ്കിലും നൽകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നാം 75 മില്ലിമീറ്റർ ഉപയോഗിക്കുന്നു തുടർന്ന് എസ്കേപ്പ് അമർത്തുക നിങ്ങളുടെ സർക്കിൾ 75 മില്ലിമീറ്ററായിരിക്കും ഇപ്പോൾ ഞാൻ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് സർക്കിൾ അതിനാൽ സ്മാർട്ട്ഡിമെൻഷൻ ക്ലിക്കുചെയ്യുക ആന്തരികം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇപ്പോൾ അളവിന്റെ കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട് അതിനാൽ അതിൽ നിന്ന് പുറത്തുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഞാൻ ചെയ്യേണ്ടത് ആ ഡ്രോയിംഗിൽ നിന്ന് നിങ്ങളുടെ മൌസ് നീക്കുക ഒരു ബട്ടണിലും ക്ലിക്കുചെയ്യരുത് നിങ്ങളുടെ മൌസ് നീക്കുക ഇപ്പോൾ ഞാൻ ഇത് വളരെ നീളത്തിൽ വരച്ചാൽ അത് ഒരുതരം അമ്പടയാളം മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ ഈ ദിശയിലാണെങ്കിൽ ഈ വിധത്തിൽ വ്യാസം കാണിക്കുന്നു അവിടെ എനിക്ക് എല്ലായ്പ്പോഴും 25 യൂണിറ്റുകൾ പോലെയുള്ള ഒന്ന് നൽകാം ഒകെ ക്ലിക്കുചെയ്യുക തുടർന്ന് എസ്കേപ്പ് അമർത്തുക സെന്റർ ബേസ് സർക്കിളുകൾ ഉപയോഗിച്ച് നമുക്ക് ഡൈമെൻഷനിംഗ് നൽകാൻ കഴിയുന്ന വഴിയാണിത് ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം അതേ സർക്കിളിൽ നമുക്ക് ചുറ്റളവ് സർക്കിൾ പോലെയുള്ള ഒന്ന് ഉണ്ട് നമുക്ക് ആ ചുറ്റളവ് സർക്കിളിൽ ക്ലിക്കുചെയ്ത് അത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾ ഇടത് വശത്ത് കാണുകയാണെങ്കിൽ ആദ്യത്തേത് മധ്യഭാഗവും ദൂരവും പോലെയുള്ള രണ്ട് കാര്യങ്ങളുണ്ട് രണ്ടാമത്തേത് ഈ സർക്കിൾ കടന്നുപോകുന്ന മൂന്ന് പോയിന്റുകളാണ് അതിനാൽ ഒരു സർക്കിൾ നിർമ്മിക്കാൻ പോകുന്ന മൂന്ന് വ്യത്യസ്ത പോയിന്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക മാനുവൽ ഡ്രോയിംഗിൽ ടാൻജെന്റുകളും മറ്റ് കാര്യങ്ങളും ഉപയോഗിച്ച് മൂന്ന് പോയിന്റ് സർക്കിൾ നിർമ്മിക്കാൻ ഒരു പ്രത്യേക രീതി ഉണ്ട് എന്നാൽ ഇവിടെ സോഫ്റ്റ്വെയർ വിവിധ തരം അൽഗോരിതം ഉപയോഗിച്ചു ഡാറ്റാ പോയിന്റുകൾ കുറച്ചുകൊണ്ട് ചുറ്റുമുള്ള ഒരു സർക്കിൾ യോജിപ്പിക്കാൻ ശ്രമിക്കുന്നു ഉപരിതല മോഡലിംഗിനെക്കുറിച്ച് നാം ചിലത് പഠിച്ചു അതുപോലെ തന്നെ കർവ് മോഡലിംഗിനെക്കുറിച്ചും നാം ചിലത് പഠിച്ചു അതിനാൽ ഇപ്പോൾ നാം മൂന്ന് വ്യത്യസ്ത ഡാറ്റാ പോയിന്റുകൾ എടുക്കുന്നു 2 2 C2 അനുമാനിക്കാൻ ശ്രമിക്കുന്നു മൂന്ന് വ്യത്യസ്ത പോയിന്റുകൾക്കായുള്ള a b c അടിസ്ഥാനമാക്കി കൃത്യമായി സർക്കിൾ കടന്നുപോകേണ്ട ആ സർക്കിളിന്റെ കേന്ദ്രം എന്തായിരിക്കണമെന്ന് ഇത് ഒപ്റ്റിമൈസ് ചെയ്യുകയും നൽകുകയും ചെയ്യുന്നു മാനുവൽ ഡ്രോയിംഗിൽ അത് വരയ്ക്കുന്നതിന് ഒരു ജ്യാമിതീയ നടപടിക്രമം നിർമ്മിക്കാൻ പോകുന്നു എന്നാൽ ഒരു സോഫ്റ്റ്വെയർ ലെവൽ നാം ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് നേരിട്ട് ഒരു ഗണിതശാസ്ത്രപരമായ പ്രവർത്തനമാണ് എ ബി സി ABC മൂല്യങ്ങൾ എന്തായിരിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കി ഈ മുഴുവൻ സമവാക്യങ്ങളും കുറയ്ക്കുക അതാണ് മിക്ക സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നാം ആ ആന്തരിക ഘടനയാണ് ഉപയോഗിക്കുന്നത് ആ ബാക്കെൻഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലെങ്കിലും ഒരു പ്രൊഫഷണൽ എഞ്ചിനീയർക്ക് ഓപ്ഷനുകൾ മാത്രം ക്ലിക്കുചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കും അത് വരയ്ക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ സോഫ്റ്റ്വെയറിന്റെ പിൻഭാഗത്ത് അത് ചെയ്യുന്നത് ഈ ഗണിതശാസ്ത്രപരമായ പ്രവർത്തനങ്ങൾ ഉപയോഗിക്കുന്നു കർവ് ഫിറ്റ് ചെയ്ത് വിവരങ്ങൾ നേടുന്നു തുടർന്ന് നിങ്ങൾക്ക് അത് വീണ്ടും ജിയുഐയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കും ഇപ്പോൾ ഞങ്ങൾ ആ ചുറ്റളവ് സർക്കിൾ തിരഞ്ഞെടുക്കുന്നു എനിക്ക് മൂന്ന് പോയിന്റുകൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യ പോയിന്റിൽ ക്ലിക്കുചെയ്യുക തുടർന്ന് രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും മൂന്നാമത്തെ പോയിന്റ് ലഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് എസ്കേപ്പ് അമർത്തുക കാരണം നാം ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് എന്നിവ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ദൂരം എന്തായിരിക്കണമെന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല കേന്ദ്രം എന്തായിരിക്കണമെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പോലും കഴിയില്ല കാരണം ഇവ ഗണിതശാസ്ത്ര ചട്ടക്കൂടിൽ നിന്ന് പുറത്തുവരേണ്ട ഔട്ട്പുട്ട്കളാണ് അതിനാൽ നമ്മുടെ സോഫ്റ്റ്വെയർ അത് ചെയ്യുന്നു സർക്കിളിന്റെ കേന്ദ്രം എവിടെയായിരിക്കണമെന്നും ആ ദൂരം എന്തായിരിക്കണമെന്നും നേരെയുള്ള ദൂരം നിങ്ങൾക്ക് നൽകുന്നു ഇപ്പോൾ സ്മാർട്ട് അളവ് ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റ് അൽപ്പം വലുതോ ചെറുതോ ആക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനാൽ നമ്മൾ എന്തു ചെയ്യും മികച്ച അളവ് തിരഞ്ഞെടുക്കുക നമ്മൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ അത് ഉടൻ തന്നെ നമുക്ക് വ്യാസം കാണിക്കുന്നു അതിനർത്ഥം ഇത് കേന്ദ്രമായിരിക്കണമെന്ന് പറഞ്ഞ് നാം മൂന്ന് പോയിന്റ് സർക്കിൾ വരയ്ക്കാൻ പോകുന്നുവെങ്കിലും അതിലൂടെ കടന്നുപോകേണ്ട വക്രങ്ങൾ ഇത് കണക്കാക്കപ്പെടുന്നു ഇപ്പോൾ നാം ഈ ആദ്യ ഗ്രൌണ്ടിൽ ക്രമീകരിക്കാൻ പോകുന്നുവെങ്കിൽ അളവുകൾ എടുക്കുന്നു എന്നാൽ അളവ് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ശ്രമിക്കാം നമുക്ക് 44 യൂണിറ്റുകൾ ആവശ്യമില്ല 20 യൂണിറ്റുകൾ എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു നാം 20 യൂണിറ്റുകൾ വ്യക്തമാക്കുകയാണെങ്കിൽ അത് ആ രീതിയിൽ ക്രമീകരിക്കപ്പെടുന്നു ഇപ്പോൾ ആ മൂന്ന് പോയിന്റുകൾ ഇനി മൂന്ന് പോയിന്റുകളല്ല എന്നാൽ ഈ മൂന്ന് പോയിന്റുകൾ ഉപയോഗിച്ച് കേന്ദ്രം ശരിയാക്കാൻ സമവാക്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ അതിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നിന്ന് കേന്ദ്രം നിർമ്മിച്ചുകഴിഞ്ഞാൽ നമ്മുക്ക് ഒരു സർക്കിൾ വരക്കാവുന്നതായാണ് ഇപ്പോൾ അതിലുപരിയായി നാം കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ഈ സർക്കിൾ ആവശ്യമില്ലങ്കിൽ പക്ഷേ 20 യൂണിറ്റ് അളവുള്ള ഒരു സർക്കിളാണ് നമുക്ക് ആവശ്യമെങ്കിൽ സ്വാഭാവികമായും സോഫ്റ്റ്വെയർ അത് ചെയ്യുന്നതിനാൽ ഇപ്പോൾ വീണ്ടും നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുകയാണ് അതിനാൽ ആ കേന്ദ്രം സൂക്ഷിക്കുക നാം സർക്കിളിനെ 20 യൂണിറ്റ് 20 വ്യാസത്തിലേക്ക് ക്രമീകരിക്കാൻ പോകുന്നു അതിനാൽ ഇത് നിർമ്മിക്കപ്പെടാതെ പോകുന്നു മാനുവൽ തലത്തിൽ നാം ആ മൂന്ന് പോയിന്റ് സർക്കിൾ എങ്ങനെ നിർമ്മിച്ചുവെന്ന് ഓർക്കുന്നുണ്ടോ ആ പോയിന്റുകളിൽ നിന്ന് ആർക്ക് വരയ്ക്കാനും സെക്ടറുകൾ നിർമ്മിക്കാനും നോർമലുകൾ വരയ്ക്കാനും നാം ശ്രമിക്കുന്നു അവിടെ ഈ നോർമലുകൾ പരസ്പരം കൂടിച്ചേരുന്നു തുടർന്ന് ജ്യാമിതീയ പ്രാതിനിധ്യമുള്ള കേന്ദ്രം നമ്മൾ കണ്ടെത്തുന്നു പക്ഷേ ഗണിതശാസ്ത്ര നില അത് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു അതിനാൽ നിങ്ങൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോഴെല്ലാം നാം കൈകൊണ്ട് വരച്ചുകൊണ്ടും ഒരു ജ്യാമിതീയ നിർമ്മാണം എങ്ങനെ ചെയ്തുവെന്നും ഈ സോഫ്റ്റ്വെയർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും പരിശോധിക്കുക ചിത്രങ്ങൾ നിർമിക്കുന്നതിനുള്ള ജ്യാമിതീയ വഴികളും ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങളും കണക്കിലെടുക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് രസം നൽകുന്നു അത് തലം ജോമെട്രിയേക്കാൾ കോർഡിനേറ്റ് ജോമെട്രിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ പൂർണസർക്കിൾ അല്ലാതെ ആർക്കു മാത്രമായാണ് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനായി ഓപ്ഷൻ സോളിഡ്വർക്സ് ലഭ്യമാണ് അതിനാൽ ആദ്യം സെന്റർ പോയിന്റ് ആർക്ക് തിരഞ്ഞെടുക്കുക ഒന്നാമതായി സെന്റർ പോയിന്റ് ആർക്കാണ് വേണ്ടത് അതിനായി നാം ഒരു സെന്റർ പോയിന്റ് തിരഞ്ഞെടുക്കണം ചില സ്ഥലത്തേക്ക് പോകുക നമുക്ക് ആവശ്യമുള്ള ആർക്ക് ക്ലിക്കുചെയ്യുക അവിടെ നിന്ന് ഒരു ആർക്ക് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി ഈ മൌസ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം അവിടെ നിങ്ങൾ നീങ്ങാൻ പോകുന്നുവെങ്കിൽ ആ നിലയിലേക്ക് ആർക്ക് നിർമ്മിക്കുന്ന ആ ഭാഗത്ത് ക്ലിക്കുചെയ്യുക നമുക്ക് ഇത് വീണ്ടും ചെയ്യാം ആദ്യത്തേത് സെന്റർ പോയിന്റ് ആർക്കാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ രണ്ടാമത്തേത് നമ്മൾ തിരഞ്ഞെടുത്തു ഇപ്പോൾ അതിനായി എതിർ ഘടികാരദിശയിൽ അല്ലങ്കിൽ അപ്രദക്ഷിണമായി നമ്മുടെ മൌസ് നീക്കുന്നു തുടർന്ന് ഓപ്ഷൻ ക്ലിക്കുചെയ്യുക തുടർന്ന് അത് നിർമ്മിക്കുന്നു അതിനാൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ദിശയിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഒരേ കമാനത്തിനായി ഞങ്ങൾ പ്രദക്ഷിണമായി പോകാൻ അനുവദിക്കും സെന്റർ പോയിന്റ് ആർക്ക് ഫസ്റ്റ് പോയിന്റ് ആർക്ക് എന്നിവയിലേക്ക് ഘടികാരദിശയിൽ നീങ്ങണം നമ്മൾ ഘടികാരദിശയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ജിയുഐ എല്ലായ്പ്പോഴും ആദ്യ പോയിന്റ് തിരഞ്ഞെടുക്കുകയാണെന്ന് പറയുന്നു പക്ഷേ പോയിന്റ് ഘടികാരദിശയിൽ അവസാനിപ്പിക്കാൻ നാം ആഗ്രഹിക്കുന്നു അതിനായി ചെയ്യേണ്ടത് എല്ലായ്പ്പോഴും എതിർ ഘടികാരദിശയിൽ പോകുക സർക്കിൾ പൂർത്തിയാക്കുക അതിനാൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് ലെവൽ വരെ ആർക്ക് വരക്കുന്നതിൽ നാം ശ്രദ്ധിക്കണം നിങ്ങൾ ഘടികാരദിശയിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആർക്ക് എല്ലായ്പ്പോഴും എതിർ ഘടികാരദിശയിലാണ് പൂർത്തിയായി തുടർന്ന് എസ്കേപ്പ് അമർത്തുക ഇപ്പോൾ ആർക്ക് ദൂരം മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു വീണ്ടും നമ്മുടെ സ്മാർട്ട് അളവ് അവിടേക്ക് പോകുന്നത് അതിശയകരമാണ് ഇത് നിരവധി യൂണിറ്റുകൾ പോലെ ക്രമീകരിക്കുക ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് 10 ദൂരം യൂണിറ്റുകൾ എല്ലായ്പ്പോഴും മില്ലീമീറ്ററായിരികാനാണ് ഞങ്ങൾ എംഎം ഉപയോഗിച്ചാണ് പോകുന്നത് തുടർന്ന് ആർക്ക് പൂർത്തിയായിയിരിക്കുന്നു ഇപ്പോൾ നാം ഒരു ആർക്ക് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രേഖ പോലുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കാം അതിൽ ഇപ്പോൾ നമ്മൾ ഓൺലൈനിലായതിനാൽ അതിൽ നിന്ന് പുറത്തുവരാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എസ്കേപ്പ് അമർത്തുക ഇപ്പോൾ നിങ്ങൾ ലൈൻ മോഡിൽ നിന്ന് പുറത്താണ് ഇപ്പോൾ ഒരു രേഖ 50 ഓളം യൂണിറ്റുകളായി ക്രമീകരിക്കുക ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ആർക്ക് സെന്റർ പോയിന്റ് ആർക്ക് വരയ്ക്കാവുന്നതാണ് ഇത് സെന്റർ പോയിന്റായിരിക്കാം നാം സെന്റർ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു നാം തിരഞ്ഞെടുത്ത ആദ്യ പോയിന്റ് അതിൽ ചേരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു തുടർന്ന് എസ്കേപ്പ് എന്റർ അമർത്തുക അതിനാൽ 180 ഡിഗ്രിയിൽ നമുക്ക് ആർക്ക് നിർമ്മിക്കാൻ കഴിയും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രേഖ അതുപോലെ ഒന്നിലധികം ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കാൻ ഈ ഓപ്ഷൻ 90 ഡിഗ്രി ലൈനാണോ അല്ലയോ എസ്കേപ്പ് മോഡ് ആണോ എന്ന് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ അതിനുചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സർക്കിൾ നമ്മൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപക്ഷേ ആ സർക്കിളിന്റെ കേന്ദ്രം ഈ പോയിന്റായിരിക്കാം നമ്മൾ മുന്നോട്ട് പോയി രണ്ടാമത്തേത് ക്ലിക്കുചെയ്യുക ചെയ്തു അതിനാൽ ഏതെങ്കിലും അധിക സ്റ്റഫ് നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒന്നിനുപുറകെ ഒന്നായി നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഇപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് താൽപ്പര്യമില്ല അപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ട്രിം എന്റിറ്റീസ് ഒബ്ജക്റ്റ് ഉപയോഗിക്കാം ഈ ട്രിം എന്റിറ്റികൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ ഉടൻ കാണും ഇപ്പോൾ കാരണം ഈ സർക്കിൾ നമുക്ക് ഉണ്ട് നാം രേഖ പോലുള്ള ഒന്ന് വരച്ചു ഒന്നുകിൽ ആ വരിയുടെ താഴത്തെ ഭാഗം അല്ലെങ്കിൽ ആ വരിയുടെ മുകൾ ഭാഗം നീക്കംചെയ്യാൻ നാം ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ഉടൻ തന്നെ ആ വരിയിൽ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ അത് ഇല്ലാതാക്കുക അത് ഒരു പൂർണ്ണ വരി ഇല്ലാതാക്കുന്നു അതിനുപകരം ട്രിം എന്റിറ്റികൾ പോലുള്ള ഒരു വസ്തു നമുക്കുണ്ട് കത്രിക പോലെയുള്ള ഒന്ന് ഉണ്ട് അതിൽ ക്ലിക്കുചെയ്യുക പവർ ട്രിം കോർണർ ട്രിം അകത്ത് ട്രിം ചെയ്യുക പുറത്ത് ട്രിം ചെയ്യുക അടയ്ക്കാൻ ട്രിം ചെയ്യുക എന്നിങ്ങനെയുള്ള നിരവധി ഡയലോഗ് ബോക്സുകൾ ഇത് കാണിക്കുന്നു ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പരിശീലിക്കണം അതിനാൽ ഉദാഹരണത്തിന് ഞാൻ പവർ ട്രിം തിരഞ്ഞെടുക്കട്ടെ പവർ ട്രിം ശക്തമാണ് ആ അർത്ഥത്തിൽ പ്രത്യേക ലൈനിൽ സ്വൈപ്പുചെയ്യുക അത് ഉടൻ തന്നെ ആ വരി നീക്കംചെയ്യുന്നു നമുക്ക് ആ പവർ ലൈനിൽ ക്ലിക്കുചെയ്യാം തുടർന്ന് ആ ബട്ടൺ അമർത്തിപ്പിടിക്കുക ആ ലൈനിനൊപ്പം വലിച്ചിടുക അത് ആ ലൈൻ നീക്കംചെയ്യുന്നു നമുക്ക് ഇത് വീണ്ടും ചെയ്യാം ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു രേഖ വരയ്ക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കിളിനേക്കാൾ കൂടുതലുള്ള ഈ വരിയുടെ പുറം ഭാഗം നീക്കംചെയ്യാൻ നാം ആഗ്രഹിക്കുന്നു ആ ആവശ്യത്തിനായി ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രിം എന്റിറ്റികൾ ഉപയോഗിക്കുക പവർ ട്രിം തിരഞ്ഞെടുക്കുക ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ഇടത് ബട്ടൺ അമർത്തിപ്പിടിക്കുക ക്ലിക്കുചെയ്യുക തുടർന്ന് നിങ്ങളുടെ മൌസ് ആ വരിയിൽ നീക്കുക തുടർന്ന് നിങ്ങളുടെ മൌസ്ബട്ടൺ വിടുക നിങ്ങൾ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ആ ലൈൻ നീക്കംചെയ്യപ്പെടും മറ്റ് വരികൾക്കും നമുക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന മറ്റൊരു വരി ഇപ്പോൾ നമുക്ക് ഈ പോയിന്റുണ്ട് ഈ പോയിന്റ് ഒരുപക്ഷേ നാം ഈ വക്രത്തിന്റെ ഭാഗം ഇവിടെ നീക്കംചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനായി വീണ്ടും എന്റിറ്റികൾ ട്രിം ചെയ്യുക പവർ ട്രിം ഇപ്പോൾ നമ്മൾ ഒന്നും നീക്കിയില്ല ഇപ്പോൾ നാം ഇടത് ബട്ടൺ ക്ലിക്കുചെയ്യാനും അത് അമർത്തിപ്പിടിക്കാനും ആ ലൈനിന് മുകളിലൂടെ പോകാനും പോകുന്നു ഇപ്പോൾ നിങ്ങളുടെ മൌസ് ബട്ടൺ റിലീസ് ചെയ്യുക നിങ്ങൾ ചെയ്തുകഴിഞ്ഞാൽ വിഭജിക്കുന്ന പോയിൻറുകൾ എന്തൊക്കെയാണെങ്കിലും ആ ഭാഗം നീക്കംചെയ്യപ്പെടും അതുപോലെ പവർ ട്രിം ഇപ്പോൾ ഞാൻ ഈ ചുവടെയുള്ള ഭാഗം നീക്കംചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനായി ആ വരിയിൽ ഇടത് ബട്ടൺ നീക്കുക ക്ലിക്കുചെയ്യുക അതിനാൽ നമുക്ക് ആ വസ്തു ഉണ്ട് അതിനാൽ നമ്മൾ സാധാരണ ജോമെട്രിക്കൽ കാര്യങ്ങൾ നിർമ്മിക്കുകയാണെങ്കിലും ചില വരികൾ നീക്കംചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പവർ ബട്ടൺ പവർ ട്രിം ബട്ടൺ ഉപയോഗിച്ച് ആ ഭാഗം നീക്കംചെയ്യുന്നതിന് അതിൽ ക്ലിക്കുചെയ്ത് വലിച്ചിടുക അടുത്ത ക്ലാസുകളിൽ സോളിഡ് വർക്ക്സിൽ ലഭ്യമായ കൂടുതൽ ഓപ്ഷനുകളെക്കുറിച്ച് നമുക്ക് പഠിക്കും